ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണ സർക്യൂട്ട് എടുത്ത് അതിലെ z പാരാമീറ്ററുകൾ എന്തൊക്കെയാണ് എന്ന് കണക്കാക്കും y പാരാമീറ്റർ ഉദാഹരണത്തിനായി ഞാൻ എടുത്ത അതേ സർക്യൂട്ട് ഞാൻ എടുക്കും അതുവഴി നിങ്ങൾക്ക് ഒരേ സർക്യൂട്ടിനായി വ്യത്യസ്ത പാരാമീറ്റർ സെറ്റുകൾ ബന്ധപ്പെടുത്താൻ കഴിയും അതിനാൽ ഇത് ഞാൻ എടുത്ത സർക്യൂട്ട് ആണ് എനിക്ക് അളക്കാൻ രണ്ട് കേസുകൾ ഉണ്ട് അതിൽ ഒന്ന് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആയി അവശേഷിക്കുന്നു ഒരു കറന്റ് സോഴ്സ് പോർട്ട് 1 ലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്നു മറ്റൊന്നിൽ പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ടിൽ അവശേഷിക്കുന്നു ഒരു കറന്റ് സോഴ്സ് പോർട്ട് 2 ലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ വളരെ ലളിതമായ സർക്യൂട്ട് ആണിത് വിശകലനം ചെയ്യാൻ വളരെ എളുപ്പമാണ് അതിനാൽ ഈ രണ്ട് റെസിസ്റ്ററുകളിലൂടെ I1 ഒഴുകുന്നു അതിനാൽ പോർട്ട് 1 ലെ വോൾട്ടേജ് ഈ രണ്ട് റെസിസ്റ്ററുകളുടെ ശ്രേണി സംയോജനമാണ് അതായത് 2 കിലോ Ω × I1 അതേസമയം പോർട്ട് 2 ലെ വോൾട്ടേജ് I1 × ഈ റെസിസ്റ്റർ 1 കിലോ Ω ആണ് ഈ സർക്യൂട്ടിൽ ഈ 1 കിലോ Ω ലൂടെ കറന്റ് ഒഴുകുന്നില്ല കാരണം ഇത് ഒരു ഓപ്പൺ സർക്യൂട്ട് ഉള്ള ശ്രേണിയിലാണ് അതിനാൽ ഇതിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പും പൂജ്യമാണ് ഇവയെല്ലാം I2 x 1 കിലോ Ω ആയി ഒഴുകുന്നു നിങ്ങൾക്ക് 1 കിലോ Ω × I2 എന്ന പോർട്ട് 2 വോൾട്ടേജ് നൽകുന്നു അതേ വോൾട്ടേജ് ഇവിടെയും ദൃശ്യമാകുന്നു അത് 1 കിലോ Ω × I2 ആണ് അതിനാൽ നമുക്ക് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ഉള്ള ആദ്യത്തെ സർക്യൂട്ടിൽ നിന്ന് z11 ലഭിക്കും അത് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ഉള്ള V2 I1 ആണ് അത് 1 കിലോ Ω ന് തുല്യമാണ് അതിനാൽ z11 മറ്റൊന്നുമല്ല പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ഉള്ള പോർട്ട് 1 ലേക്ക് ഉള്ള പ്രതിരോധം ആണ് നിങ്ങൾ പോർട്ട് 1 ലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 കിലോ Ω പ്രതിരോധം നൽകുന്ന ഈ രണ്ട് റെസിസ്റ്ററുകളുടെയും സംയോജനം സീരീസിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സർക്യൂട്ടിലേക്ക് പോകാം ഇതിൽ നിന്ന് നമുക്ക് z12 ലഭിക്കും അത് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ഉള്ള V1 I2 ആണ് അത് നിങ്ങൾക്ക് 1 കിലോ Ω ഉം z22 ഉം നൽകുന്നു അതായത് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ഉള്ള V2 I2 അതും 1 കിലോ Ω ആണ് അതിനാൽ ഇവയാണ് നാല് z പാരാമീറ്ററുകൾ ഇവിടെ z22 മറ്റൊന്നുമല്ല പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ഉള്ള പോർട്ട് 2 ലേക്കുള്ള പ്രതിരോധം ആണ് നിങ്ങൾ പോർട്ട് 2 ലേക്ക് നോക്കുകയാണെങ്കിൽ ഈ 1 കിലോ Ω ഉം 1 കിലോ Ω ഉള്ളത് കാണും അതിനാൽ ഇത് ഒന്നും സംഭാവന ചെയ്യുന്നില്ല അതിനാൽ പോർട്ട് 2 ലേക്കുള്ള പ്രതിരോധം വെറും 1 കിലോ Ω ആണ് അതാണ് നമ്മൾ കാണുന്നത് അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിന്റെ z പാരാമീറ്റർ 2 കിലോ Ω 1 കിലോ Ω 1 കിലോ Ω 1 കിലോ Ω ആണ് ഈ z മാട്രിക്സ് നിങ്ങൾ ഉരുത്തിരിഞ്ഞ y മെട്രിക്സിന്റെ വിപരീതം ആണോ എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം മുമ്പത്തെ ഉദാഹരണത്തിൽ സർക്യൂട്ട് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു കൺട്രോൾ സോഴ്സ് ചേർത്ത് സർക്യൂട്ട് അൽപ്പം സങ്കീർണ്ണമാക്കാം ഞാൻ നേരത്തെ എടുത്ത അതേ ഉദാഹരണം ഞാൻ വീണ്ടും എടുക്കും അതുവഴി ഒരേ സർക്യൂട്ട് പോർട്ട് 1 പോർട്ട് 2 1 കിലോ Ω വ്യത്യസ്ത പാരാമീറ്റർ സെറ്റുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടുത്താൻ കഴിയും 1 കിലോ Ω 2 മില്ലിസീമെൻസ് തുടങ്ങിയവ അതിനാൽ ഞാൻ ഈ വിശകലനത്തിലൂടെ വേഗത്തിൽ കടന്നുപോകും കാരണം സർക്യൂട്ട് വിശകലനം ഇപ്പോൾ നിങ്ങൾക്ക് പരിചിതമാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് സ്വയം പ്രവർത്തിപ്പിക്കുകയും ഞാൻ ഉരുത്തിരിഞ്ഞവയുമായി നിങ്ങളുടെ ഉത്തരങ്ങൾ താരതമ്യം ചെയ്യുകയും ചെയ്യാം അതിനാൽ എനിക്ക് വീണ്ടും രണ്ട് കേസുകൾ ആവശ്യമാണ് ഒന്ന് പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആണ് പോർട്ട് 1 ലേക്ക് ഒരു കറന്റ് പ്രയോഗിക്കുന്നു പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ആയതും പോർട്ട് 2 ലേക്ക് കറന്റ് പ്രയോഗിക്കുന്നതും ആയ മറ്റൊരു കേസ് ഉണ്ട് അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു നിയന്ത്രിത സ്രോതസ്സും ആയ അൽപ്പം സങ്കീർണ്ണമായ സാഹചര്യം നോക്കാം ഇപ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് നിരീക്ഷിച്ചാൽ I1 ഈ 1 കിലോ Ω വഴി ഒഴുകുന്നു തുടർന്ന് ഇവ രണ്ടിന്റെയും സമാന്തര സംയോജനം കാണാം അതിനാൽ ഇതിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 1 കിലോ Ω × I1 ആണ് ഈ റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് I1 ആണ് കറന്റ് സ്രോതസ്സിലൂടെ ഏത് കറണ്ട് ഒഴുകുന്നുവോ അത് I1 2 മില്ലിസീമെൻസ് x Vx ആണ് ഈ സർക്യൂട്ടിൽ നിങ്ങൾ അത് കാണുന്നു Vx എന്നത് V1 ആണ് കാരണം ഇവിടെ വോൾട്ടേജ് V1 ആണ് Vx എന്നത് V1 ന് തുല്യമാണ് അതിനാൽ ഞാൻ ഇത് I1 2 മില്ലിസീമെൻസ് × V1 എന്ന് എഴുതാം അങ്ങനെയാണ് അവിടെ കറന്റ് ഒഴുകുന്നത് അതിനാൽ ഇതിലുടനീളമുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഈ കറന്റ് × 1 കിലോ Ω ആണ് അതായത് I1 × 1 കിലോ Ω 2 മില്ലിസീമെൻസ് × 1 കിലോ Ω × V1 അതായത് 2 V1 കൂടാതെ V2 വോൾട്ടേജു മറ്റൊന്നുമല്ല ഈ 1 കിലോ Ω റെസിസ്റ്ററിൽ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അതിനാൽ ഞാൻ ഈ രണ്ട് സമവാക്യങ്ങൾ എഴുതും ഒന്നാമതായി V1 എന്നത് ഇതിലും അതിലുമുള്ള വോൾട്ടേജ് ഡ്രോപ്പുകളുടെ ആകെത്തുകയാണ് അതായത് 1 കിലോ Ω × I1 1 കിലോ Ω × I1 2 V1 ഇതിൽ നിന്ന് V1 എന്നത് 2 3 കിലോ Ω × I1 ആണെന്നും നമുക്കറിയാം V2 എന്നത് ഇതിലെ വോൾട്ടേജ് ഡ്രോപ്പാണ് അതിനാൽ V2 എന്നത് 1 കിലോ Ω I1 2 V1 ഉം ആണ് V1 നമ്മൾ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട് അതിനാൽ ഇത് 2 × 23 കിലോ Ω × I 1 ആണ് അത് അടിസ്ഥാനപരമായി 13 കിലോ Ω × I1 ആണ് കൂടാതെ പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ഉള്ളതിനാൽ V1 ഒന്നുമല്ല z11 I1 ഉം ആണെന്ന് നമ്മൾക്കറിയാം V2 മറ്റൊന്നുമല്ല z21 I1 ആണ് അതിനാൽ z11 ഈ അളവും z21 ആ അളവുമാണ് അതിനാൽ നമ്മൾക്ക് കുറച്ച് കൂടി കണക്കുകൂട്ടൽ ആവശ്യമാണ് ഞാൻ അത് വേഗത്തിൽ പോയി പക്ഷേ ഞാൻ 1 പ്രയോഗിച്ച കറന്റ് സ്രോതസ്സ് ഉപയോഗിച്ച് സർക്യൂട്ടിന്റെ വിശകലനം ഇപ്പോൾ പതിവാണ് അതിനാൽ നിങ്ങൾക്ക് ഇത് സ്വയം ചെയ്യാൻ കഴിയണം മറ്റ് കേസിലും ഞാൻ ഇത് ചെയ്യും സർക്യൂട്ടിന്റെ ഈ ഭാഗം ഞാൻ പകർത്തട്ടെ പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ആണ് ഇപ്പോൾ വീണ്ടും 1 കിലോ Ω റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് പൂജ്യവും V2 ഈ പ്രത്യേക സർക്യൂട്ടിൽ V1 ന് തുല്യവുമാണ് ഇത് പൊതുവെ ശരിയല്ല കൂടാതെ Vx V1 ന് തുല്യമാണ് അതിനാൽ ഇപ്പോൾ ഈ 1 കിലോ Ω റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് ഇതിലൂടെ പൂജ്യമാണ് ഈ ലംബമായ 1 കിലോ Ω റെസിസ്റ്ററിലൂടെ കറന്റ് I2 ആണ് നിയന്ത്രിത സ്രോതസ്സിലൂടെ ഏത് കറൻറ് ഒഴുകുന്നു അത് I2 2 മില്ലിസിമെൻസ് × Vx ആണ് അത് V1 ന് സമാനമാണ് അത് V2 ന് സമാനമാണ് അതിനാൽ ഞാൻ അത് ഉടൻ എഴുതാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ ഈ വോൾട്ടേജ് ഡ്രോപ്പ് V2 ഈ 1 കിലോ Ω റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് × 1 കിലോ Ω ആണ് അതിനാൽ V2 നമുക്ക് അത് I2 2 മില്ലിസീമെൻസ് × V2 × 1 കിലോ Ω ആയി ലഭിക്കുന്നു ഇതിൽ നിന്ന് V2 ഒരു കിലോയുടെ 13 Ω × I2 ആയി മാറുന്നു കൂടാതെ V1 തന്നെയാണെന്നും നമ്മൾ പറഞ്ഞു V2 അത് 1 3 കിലോ Ω × I2 ആണ് കൂടാതെ പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ടഡ് V2 എന്നത് മറ്റൊന്നുമല്ല z22 I2 ആണ് V1 മറ്റൊന്നുമല്ല z12 I2 ആണ് അതിനാൽ ഇത് z12 ആണ് അത് z22 ആണ് ഈ സർക്യൂട്ടിനുള്ള z പാരാമീറ്റർ മാട്രിക്സ് 23 കിലോ Ω 13 കിലോ Ω 13 കിലോ Ω 13 കിലോ Ω എന്നിങ്ങനെ മാറുന്നു വീണ്ടും നിങ്ങൾക്ക് പഴയ അല്ലെങ്കിൽ y പാരാമീറ്റർ ഉദാഹരണത്തിലേക്ക് തിരികെ പോയി പരിശോധിച്ചുറപ്പിക്കാം ഇത് ഈ സർക്യൂട്ടിനുള്ള y മാട്രിക്സിന്റെ വിപരീതമാണ്